എല്ലാവർക്കും ഹായ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് എന്ന കോഴ്സിനായുള്ള മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ട്യൂട്ടോറിയലുകളിൽ ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ നിന്നും ഡാറ്റ എങ്ങനെ ശേഖരിക്കാമെന്ന് നമ്മൾ കണ്ടു പൈത്തണിന്റെയും ലിനക്സ് ഉബുണ്ടുവിന്റെയും ചില അടിസ്ഥാനകാര്യങ്ങൾ നമ്മൾ കണ്ടു ജിഫി ഉപയോഗിച്ച് സോഷ്യൽ നെറ്റ്വർക്ക് വിശകലനത്തിന്റെ ചില ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ നിന്നും ശേഖരിച്ച ഡാറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നതാണ് പഠിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ലഭിച്ച ടെക്സ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള അടിസ്ഥാനകാര്യങ്ങൾ നോക്കും ഇപ്പോൾ നമുക്ക് ഫേസ്ബുക് ഡാറ്റ ശേഖരണ സ്ക്രിപ്റ്റിലേക്ക് മടങ്ങാം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാൻ നമ്മൾ ചെയ്തത് ഇതാണ് നമ്മൾ ഒരു ലളിതമായ പ്രവർത്തനം സൃഷ്ടിച്ചു ഗ്രാഫ് എ പി ഐ ചൂണ്ടിക്കാണിക്കുന്ന ഒരു യൂആർഎൽ നമ്മൾ നിർവ്വചിച്ചു ഈ യൂആർഎൽ ഉപയോഗിച്ച് ഫേസ്ബുക് ൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്റ്റുചെയ്യാൻ നമ്മൾ ഒരു അഭ്യർത്ഥന ലൈബ്രറി ഉപയോഗിച്ചു നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിലവിലുള്ള സന്ദേശ ഫീൽഡ് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു അതിനാൽ ആദ്യ രണ്ട് ആഴ്ചകളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പുനരവലോകനതിന് നമുക്ക് ഈ കോഡ് വീണ്ടും പ്രവർത്തിപ്പിക്കാം അതിനാൽ നമ്മൾ പൈത്തണ് സ്പേസ് എൻപിടിഇഎൽ അണ്ടർസ്കോർ ഫെയ്സ്ബുക്ക് python nptel facebook ടൈപ്പ് ചെയ്യുന്നു എൻപിടിഇഎൽ പേജ് ചെയ്ത പോസ്റ്റുകളുടെ സന്ദേശ ഭാഗം ഇത് പ്രിന്റ് ചെയ്യും ഇവിടെ ഒരു പിശക് ഉണ്ട് നിങ്ങളുടെ ടെർമിനലിൽ നിങ്ങൾ എന്തെങ്കിലും അച്ചടിക്കുമ്പോൾ ഡാറ്റ സാധാരണ എ എസ് സി ഐ ഐ ഫോർമാറ്റിൽ അല്ലെങ്കിൽ യൂണിക്കോഡ് ഡാറ്റ ഉണ്ടെങ്കിൽ സ്വതവേ പൈത്തൺ കാറെക്ടർസ് അച്ചടിക്കാൻ എ എസ് സി ഐ ഐ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഒരു യൂണിക്കോഡ് കാറെക്ട നേരിടുകയാണെങ്കിൽ അത് പ്രിന്റ് ചെയ്യാൻ കഴിയില്ല അത് സാധാരണയായി ഒരു പിശക് നൽകുന്നു അതിനാൽ നിങ്ങൾ ഈ പിശക് വായിച്ചാൽ എ എസ് സി ഐ ഐ കോഡെക്കിന് 'യൂ' u എന്ന ക്യാരക്ടറും 30 ആം സ്ഥാനത്ത് ചില കോഡുകളും കാണും അത് എൻകോഡ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു അതിനാൽ തുടക്കത്തിൽ ഒരു 'യൂ' ൽ ആരംഭിക്കുന്ന ഏത് സ്ട്രിംഗും സാധാരണയായി ഒരു യൂണിക്കോഡ് സ്ട്രിംഗ് ആണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അത്തരം സ്ട്രിംഗുകൾ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് എന്തുചെയ്യാൻ കഴിയും അതിനായി നമുക്ക് സ്ക്രിപ്റ്റിൽ ഡോട്ട് എൻകോഡ് യുടിഎഫ് 8 അതിനാൽ ഇത് ചെയ്യുന്നത് എന്തെന്നാൽ ഇത് നമുക്ക് യുടിഎഫ് 8 ഫോർമാറ്റിലേക്ക് ലഭിക്കുന്ന എല്ലാ സന്ദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റുകളും എൻകോഡ് ചെയ്യുകയും തുടർന്ന് അത് പ്രിന്റ് ചെയ്യുകയും ചെയ്യും അതിനാൽ എ മുതൽ ഇസഡ് അല്ലെങ്കിൽ 0 മുതൽ 9 വരെ പ്രതീകത്തിന്റെ നിലവാരമല്ലാത്ത ഏതെങ്കിലും യൂണിക്കോഡ് പ്രതീകം ഉണ്ടെങ്കിൽ ഇത് ഏത് പ്രതീകമായാലും അത് പരിവർത്തനം ചെയ്യും ഉദാഹരണത്തിന് ഹിന്ദി ടെക്സ്റ്റ് അല്ലെങ്കിൽ അറബിക് ടെക്സ്റ്റ് ഉണ്ട് എന്ന് കരുതുക എ എസ് സി ഐ ഐ കാറെക്ട സെറ്റിൽ അടങ്ങിയിട്ടില്ലാത്ത വാചകങ്ങളാണവ അതിനാൽ യുടിഎഫ് 8 എൻകോഡിംഗ് ഉപയോഗിച്ച് അവ അച്ചടിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ഒരു തെറ്റും ഇല്ല നിങ്ങൾ തിരികെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അത് ഏത് കാറെക്ടർ ആണ് എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ ഈ ബുള്ളറ്റ് പോയിന്റ് ഇത് ഒരു സാധാരണ എ എസ് സി ഐ ഐ കാറെക്ടർ അല്ല ഇവിടെയാണ് പിശക് വന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് നമുക്ക്ലഭിച്ച അവസാന പോസ്റ്റായിരുന്നു അതിനുശേഷം ഒരു പിശക് സന്ദേശം ഉണ്ടായിരുന്നു ഇതാണ് ഒരുപക്ഷേ പിശകിന് കാരണമായത് ഇപ്പോൾ ടെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ ആരംഭിക്കുക നിങ്ങൾക്ക് വേണ്ടത് ടെക്സ്റ്റ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ലൈബ്രറിയാണ് അതിനാൽ പൈത്തണിൽ നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ് അല്ലെങ്കിൽ ചുരുക്കത്തിൽ എൻഎൽടികെ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയുണ്ട് നമുക്ക് അത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം അതിനാൽ നിങ്ങൾ സുഡോ പിപ്പ് ഇൻസ്റ്റാൾ എൻഎൽടികെ ടൈപ്പ് ചെയ്യുക എന്റർ അമർത്തുക ഇപ്പോൾ എൻഎൽടികെ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾ പൈത്തൺ ഷെല്ലിലേക്ക് പോയി എൻഎൽടികെ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് വിജയിക്കും എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എൻഎൽടികെ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രം മതിയാകില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വാചകം ഒരു കൂട്ടം വാക്കുകളാക്കി മാറ്റണമെങ്കിൽ വേഡ് ടോക്കനൈസർ എന്ന് വിളിക്കപ്പെടുന്ന അപ്ലിക്കേഷൻ ഉണ്ട് അതിനാൽ ഫ്രം എൻഎൽടികെ ഇമ്പോർട്ട് വേർഡ് അണ്ടർസ്കോർ ടോക്കനൈസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എൻഎൽടികെ ൽ നിന്ന് അത് ഇമ്പോർട്ടുചെയ്യാം നമുക്ക് ഒരു സ്ട്രിംഗ് ഉണ്ടാക്കാം എൻ പി ടി ഇ എൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം പോലുള്ള ഒരു വാചകം ഉണ്ടാക്കുക ഇപ്പോൾ ഈ വേഡ് അണ്ടർസ്കോർ ടോക്കനൈസ് ചെയ്യുന്നത് എന്തെന്നാൽ നമ്മൾ ഒരു സ്ട്രിംഗ് നൽകുമ്പോൾ അത് വാക്യത്തിൽ നിലവിലുള്ള വാക്കുകളുടെ ഒരു ലിസ്റ്റ് നൽകണം അതിനാൽ വേഡ് അണ്ടർസ്കോർ ടോക്കനൈസ് സെന്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വാക്യത്തിലെ വാക്കുകൾ നമുക്ക് നൽകുമെന്ന് കരുതപ്പെടുന്നു എന്നാൽ അതിനു പകരം ഒരു പിശക് കാണിക്കുന്നു അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താൻ എൻഎൽടികെ ലൈബ്രറിക്ക് കുറച്ച് ഡാറ്റ ആവശ്യമുണ്ട് ഒരു കൂട്ടം കോർപസുകളിൽ ഈ ഡാറ്റയുണ്ട് അതിനാൽ നിങ്ങൾ പിശക് സന്ദേശം ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനം നടത്താൻ ആവശ്യമായ ഉറവിടങ്ങൾ ഡൌൺലോഡ് ചെയ്യുന്നതിന് നിങ്ങൾ എൻഎൽടികെ ഡോട്ട് ഡൌൺലോഡ് ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്ന് പറയുന്നു അതിനാൽ നിങ്ങൾ എൻഎൽടികെ ഡോട്ട് ഡൌൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക എൻഎൽടികെ ഡൌൺലോഡർ മെനു ദൃശ്യമാകുന്നത് നിങ്ങൾ കാണും ഇപ്പോൾ 'ഡി' d ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക അതിനാൽ നിങ്ങൾക്ക് ഏത് പാക്കേജ് ഡൌൺലോഡ് ചെയ്യണമെന്ന് ഡൌൺലോഡർ ചോദിക്കും ഇപ്പോൾ ലഭ്യമായ പാക്കേജുകളുടെ ലിസ്റ്റ് കാണാൻ എൽ L എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഇപ്പോൾ എൻഎൽടികെ ലൈബ്രറിയിൽ ഉപയോഗിക്കാവുന്ന പാക്കേജുകളുടെ ഒരു വലിയ പട്ടികയുണ്ട് അതിനാൽ നമുക്ക് ആവശ്യമുള്ളവ തിരഞ്ഞെടുക്കുന്നതിനുപകരം നമ്മൾ ചെയ്യുന്നത് ഡബിൾ എൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക എന്നതാണ് ലഭ്യമായ എല്ലാ പാക്കേജുകളും ഡൌൺലോഡ് ചെയ്യാൻ ഇത് നമ്മളെ അനുവദിക്കും ഇപ്പോൾ ഈ മുഴുവൻ കോർപ്പസിനും ഏകദേശം 10 ജിബി വലുപ്പമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ആവശ്യമായ പാക്കേജുകൾ മാത്രം നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാം ഉദാഹരണത്തിന് ഈ പ്രത്യേക ഉദാഹരണത്തിനായി നിങ്ങൾ തിരികെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പങ്ക്ത്ത് punkt എന്ന ഒരു പാക്കേജ് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ എൻഎൽടികെ കാണിച്ച പട്ടികയിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് ഇവിടെ കണ്ടെത്താനാകും ഈ മോഡൽ മാത്രം ഡൌൺലോഡ് ചെയ്യാൻ നിങ്ങൾ പങ്ക്ത്ത് punkt എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇത് വേഗത്തിലാകും ഇത് നിങ്ങളുടെ ബാൻഡ്വിഡ്ത്ത് വളരെയധികം ലാഭിക്കും അതിനാൽ നിങ്ങൾ എൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം ഡൌൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പാക്കേജുകൾക്കും മുന്നിൽ ഒരു നക്ഷത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണാം കാരണം നമ്മൾ എല്ലാ പാക്കേജുകളും ഡൌൺലോഡ് ചെയ്തു കഴിഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഡി അമർത്തി ടോക്കനൈസർ മാത്രം ഡൌൺലോഡ് ചെയ്യാൻ പങ്ക്ത്ത് punkt എന്ന് ടൈപ്പ് ചെയ്യുക എന്നതാണ് അതിനാൽ പാക്കേജ് പങ്ക്ത്ത് ഇതിനകം കാലികമാണെന്നാണ് ഇത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കോർപ്പസ് ഡൌൺലോഡ് ചെയ്തുകഴിഞ്ഞാൽ ക്യൂ ടൈപ്പ് ചെയ്ത് പുറത്തുകടക്കാൻ എന്റർ അമർത്തുക ഇപ്പോൾ നിങ്ങൾ ആ പ്രസ്താവന വീണ്ടും നടപ്പിലാക്കുകയാണെങ്കിൽ 'വേർഡ് അണ്ടർസ്കോർ ടോക്കനൈസ് വാക്യത്തെ വാക്കുകളാക്കി ടോക്കൺ ചെയ്തതായി നമ്മൾ കാണും നമുക്ക് വാക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇപ്പോൾ എൻ പി ടി ഇ എൽ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മൾ ഡൌൺലോഡ് ചെയ്ത പോസ്റ്റ് വിശകലനം ചെയ്യാൻ ഈ വേഡ് ടോക്കനൈസർ ഉപയോഗിക്കും അതിനു ശേഷം പൈത്തൺ ഷെല്ലിൽ നിന്ന് പുറത്തുകടന്ന് പുറത്തുകടക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് തിരികെ പോകാം എൻ പി ടി ഇ എൽ പേജിൽ അവരുടെ പോസ്റ്റുകൾക്കായി ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടെത്താൻ എൻഎൽടികെ ഉപയോഗിക്കാൻ ശ്രമിക്കാം അതിനാൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് എൻ പി ടി ഇ എൽ പേജിലെ സമീപകാല പോസ്റ്റുകളിൽ ചിലത് നമ്മൾ പരിശോധിക്കുകയും അവരുടെ പോസ്റ്റുകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വാക്കുകൾ ഏതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് പോകാം എൻഎൽടികെ യിൽ ഇംപോർട്ട് വേഡ് അണ്ടർസ്കോർ ടോക്കനൈസ് ടൈപ്പ് ചെയ്യുക നമ്മൾ ആവർത്തിക്കുന്ന ഓരോ സന്ദേശത്തിനും നമ്മൾ എന്തുചെയ്യും എന്നാൽ 'ടോക്കൺ എന്നത് വേഡ് അണ്ടർസ്കോർ പോസ്റ്റ് ഡോട്ട് എൻകോഡ് യൂ ടി എഫ് 8 എന്നതിന് തുല്യമാണ് എന്ന് പറയും അതിനാൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ പക്കലുള്ള എല്ലാ പോസ്റ്റുകളും ടോക്കണുകൾ ആക്കി വാക്കുകളുടെ ഒരു ലിസ്റ്റാക്കി മാറ്റുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ട്രിംഗ് ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റണം അതിനാൽ ഞങ്ങൾ ആവർത്തനത്തെ ഒഴിവാക്കാൻ 'ഡോട്ട് ലോവർ' lower എന്ന് പറയുന്നു കാരണം നമ്മൾ വാക്കുകളുടെ ആവൃത്തികൾ എണ്ണുമ്പോൾ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും രണ്ട് വ്യത്യസ്ത പദങ്ങളായി കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഏകത്വം നിലനിർത്തണം അതിനാൽ നമ്മൾ എല്ലാം ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റുകയും തുടർന്ന് ആവൃത്തികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ ഓരോ പോസ്റ്റുകൾക്കുമുള്ള ടോക്കണുകളിൽ വാക്കുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ പക്കലുണ്ട് ആവൃത്തികൾ കണക്കാക്കാൻ ഇപ്പോൾ നമുക്ക് ഈ ടോക്കണുകളെല്ലാം ഒരു ലിസ്റ്റിൽ ശേഖരിക്കേണ്ടതുണ്ട് അതിനാൽ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഒരു ശൂന്യമായ പട്ടികയായി നമ്മൾ ഓൾ അണ്ടർസ്കോർ ടോക്കൻസ് all tokens സൃഷ്ടിക്കും ഓരോ തവണ ടോക്കണുകൾ കണക്കാക്കുമ്പോഴും നമ്മൾ ഓൾ അണ്ടർസ്കോർ ടോക്കൻസ് ഓൾ അണ്ടർസ്കോർ ടോക്കൻസ് പ്ലസ് ടോക്കൻസ് എന്ന് നിർവചിക്കും അതിനാൽ ഇത് എന്തുചെയ്യും എന്നാൽ ഇത് നമ്മൾ സൃഷ്ടിച്ച എല്ലാ ടോക്കണുകളുടെയും ലിസ്റ്റ് നിലനിർത്തുന്ന മറ്റൊരു പട്ടികയിലേക്ക് നിലവിലെ പോസ്റ്റിൽ നിന്ന് ലഭിച്ച ടോക്കണുകൾ കൂട്ടിച്ചേർക്കും അതിനാൽ ഈ പ്രിന്റ് സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പോസ്റ്റുകളിൽ ഉള്ള എല്ലാ വാക്കുകളുടെയും ഒരു ലിസ്റ്റ് കാണാൻ നമ്മൾ ഓൾ അണ്ടർസ്കോർ ടോക്കൻസ് പ്രിന്റ് ചെയ്യും അതിനാൽ നമ്മൾ വിശകലനം ചെയ്യുന്ന പോസ്റ്റുകളുടെ എണ്ണത്തിന് ഒരു പരിധി കൂടി ചേർക്കാം അതിനാൽ പരിധി 15 എന്ന് തുല്യമാണെന്നും ആക്സസ് ടോക്കൺ ആക്സസ് ടോക്കൺ ആണെന്നും നമ്മൾ പറയും അതിനാൽ നമ്മൾ എൻ പി ടി ഇ എൽ പേജ് പോസ്റ്റ് ചെയ്ത അവസാന പതിനഞ്ച് പോസ്റ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ വാക്കുകളും അച്ചടിക്കുകയാണ് അതിനാൽ എൻ പി ടി ഇ എൽ പോസ്റ്റു ചെയ്ത പോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വാക്കുകളുടെയും ഒരു ലിസ്റ്റ് അവിടെ കാണാം ഇപ്പോൾ ഈ വാക്കുകളുടെ ആവൃത്തി കണക്കുകൂട്ടാൻ നമ്മൾ ചെയ്യുന്നത് പൈത്തണിൽ നിന്നുള്ള കൌണ്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കും എന്നതാണ് ഇപ്പോൾ കളക്ഷൻസ് ഇമ്പോർട്ട് കൌണ്ടറിൽ നിന്ന് ഈ കൌണ്ടർ എന്താണ് ചെയ്യുന്നത് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഈ ലിസ്റ്റിലെ എല്ലാ അദ്വിതീയ ഘടകങ്ങളുടെയും ഉദാഹരണങ്ങളുടെ എണ്ണം കണക്കാക്കും അതിനാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആവൃത്തികൾ കൌണ്ടർ ഓൾ അണ്ടർസ്കോർ ടോക്കൻസ് എന്ന് പറയും ഇപ്പോൾ ഏറ്റവും സാധാരണമായ വാക്കുകൾക്ക് ടോക്കണും അതിന്റെ ആവൃത്തിയും അച്ചടിക്കാൻ നമുക്ക് പറയാം 'ടോക്കൺ കോമ കൌണ്ട് ഇൻ ഫ്രിക്യുഎൻസിസ് ഡോട്ട് മോസ്റ്റ് അണ്ടർസ്കോർ കോമൺ' അതിനാൽ നമുക്ക് ഏറ്റവും സാധാരണമായ 25 വാക്കുകൾ നോക്കാം അതിനു പ്രിന്റ് ടോക്കൺ കോമ കൌണ്ട് എന്ന് നമ്മൾ പറയുന്നു എഡിറ്ററിൽ നിന്ന് പുറത്തുകടന്ന് പൈത്തൺ സ്പേസ് എൻ പി ടി ഇ എൽ ഫേസ്ബുക് എന്ന് ടൈപ്പ് ചെയ്യുക അതിനാൽ ദി എന്ന വാക്ക് 24 തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ടു 22 തവണ ഉപയോഗിച്ചിട്ടുണ്ട് 16 തവണ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ പി ടി ഇ എൽ അവരുടെ പോസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് അതിനാൽ വ്യക്തമായും കോഴ്സും എൻ പി ടി ഇ എൽ എന്ന വാക്കും ധാരാളം തവണ പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ അവർ ധാരാളം എച് ടി പി പി എസ് അടങ്ങിയ യൂ ആർ എൽ കൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് നമ്മൾ കാണുന്നത് കോഴ്സും കോഴ്സുകളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കോഴ്സും കോഴ്സുകളും ഒരേ അടിസ്ഥാന പദത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഉദാഹരണത്തിന് വായിക്കുക വായിക്കുന്നു വായിച്ചു ഇവയെല്ലാം വായിക്കപ്പെടുന്നു എന്ന ഒരേ വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ഇപ്പോൾ ഏത് വാക്കിൽ നിന്നും ഈ അടിസ്ഥാന പദത്തിൽ എത്തുന്ന പ്രക്രിയയെ സ്റ്റെമിംഗ് എന്ന് വിളിക്കുന്നു ഇതുപോലുള്ള ആവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് സ്റ്റെമ്മിംഗ് ഉപയോഗിക്കാം അതിനാൽ നമുക്ക് കോഴ്സ് ഒഴിവാക്കാനും കോഴ്സുകൾ വെവ്വേറെ പ്രത്യക്ഷപ്പെടാനും കഴിയും പകരം അവയെ അടിസ്ഥാന പദമായ കോഴ്സായി പരിഗണിക്കുന്നു ഇപ്പോൾ എൻഎൽടികെ ചില സ്റ്റെമ്മിംഗ് ഫംഗ്ഷനുകൾ നൽകുന്നു അത് നിങ്ങളുടെ വാക്കുകളെ അടിസ്ഥാന സ്റ്റെം പദമാക്കി മാറ്റാൻ ഉപയോഗിക്കാം അതിനാൽ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് 'ഫ്രം എൻഎൽടികെ ഡോട്ട് സ്റ്റെം ഇമ്പോർട്ട് പോർട്ടർ സ്റ്റെമ്മർ' എന്ന് ടൈപ്പ് ചെയ്യാം ഒന്നിലധികം തരം സ്റ്റെമ്മറുകൾ ഉണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതിനെ പോർട്ടർ സ്റ്റെമ്മർ എന്ന് വിളിക്കുന്നു സ്റ്റെമർ പോർട്ടർ സ്റ്റെമ്മർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റെമ്മർ ഒബ്ജക്റ്റ് സൃഷ്ടിക്കും നമ്മുടെ ലിസ്റ്റിലെ എല്ലാ ടോക്കണുകളും സ്റ്റെം ചെയ്യാൻ ഞങ്ങൾ ഈ നമ്മൾ ഉപയോഗിക്കും അതിനാൽ നമ്മൾ എന്തുചെയ്യും നമുക്ക് 'ഓൾ ടോക്കൻസ്' എന്ന മറ്റൊരു ശൂന്യമായ പട്ടിക സൃഷ്ടിക്കാം ഓൾ അണ്ടർസ്കോർ ടോക്കൻസ് ഇനെ നമ്മൾ സ്റ്റെംഡ് അണ്ടർസ്കോർ ടോക്കൺ സ്റ്റെമർ ഡോട്ട് സ്റ്റെം ടോക്കൺ എന്ന് പറയുന്നു ഈ വരിയിൽ നമ്മൾ ചെയ്യുന്നത് ടോക്കൺ അതിന്റെ സ്റ്റെംഡ് പതിപ്പിലേക്ക് പരിവർത്തനം ചെയ്യുകയും സ്റ്റെംഡ് അണ്ടർസ്കോർ ടോക്കൺ എന്ന പുതിയ വേരിയബിളിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഈ പുതിയ സ്റ്റെംഡ് ലിസ്റ്റിലേക്ക് ഈ സ്റ്റെംഡ് ടോക്കൺ ചേർക്കാം അതിനാൽ നമ്മൾ 'ഓൾ ടോക്കൻസ് അണ്ടർസ്കോർ സ്റ്റെംഡ് ഡോട്ട് അപ്പെൻഡ് സ്റ്റെംഡ് അണ്ടർസ്കോർ ടോക്കൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു സ്റ്റെംഡ് ടോക്കണുകൾക്കുള്ള ആവൃത്തികൾ നമുക്ക് ഇപ്പോൾ കണക്കാക്കാം ഇപ്പോൾ ഇത് നമ്മുടെ കോഴ്സും കോഴ്സുകളും പ്രശ്നം പരിഹരിക്കുകയും അവയെ ഒരേ അടിസ്ഥാന വാക് ആയ കോഴ്സായി പരിഗണിക്കുകയും ചെയ്യും അതിനാൽ കോഴ്സും കോഴ്സുകളും ഒരു വാക്കായി സംയോജിപ്പിച്ച് ആവൃത്തി ഇപ്പോൾ പതിനാലു ആയി കുറഞ്ഞു അതുപോലെ എൻറോൾമെന്റ് എൻറോൾ ആയി മാറിയിരിക്കുന്നു സർട്ടിഫിക്കേഷനും സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റായി മാറി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നീ വാക്കുകളുടെ മൂലപദമാണിത് ഇപ്പോൾ ടെക്സ്റ്റ് വിശകലനം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ സാധാരണയായി കാണപ്പെടുന്ന വാക്കുകൾ പരിഗണനയിലുള്ള ഉള്ളടക്കം വിശകലനം ചെയ്യുന്നതിന് വലിയ സഹായമല്ല ഉദാഹരണത്തിന് and or the to for എന്നിവ ഇംഗ്ലീഷ് ഭാഷയിൽ സ്വാഭാവികമായും പതിവായി പ്രത്യക്ഷപ്പെടുന്ന വാക്കുകളാണ് അതിനാൽ മെച്ചപ്പെട്ട വിശകലനം നടത്താനുള്ള ഒരു നല്ല മാർഗം ഈ വാക്കുകൾ ഇല്ലാതാക്കാൻ ഒരു വഴി കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ എല്ലാ ഭാഷകളിലും ഭാഷയിൽ സാധാരണയായി കാണപ്പെടുന്ന വാക്കുകളെ സ്റ്റോപ്പ് വാക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ എൻഎൽടികെ ഇംഗ്ലീഷ് ഭാഷയിൽ സ്റ്റോപ്പ് വാക്കുകൾ നൽകുന്നു ഈ വാക്കുകൾ തിരിച്ചറിയാനും നമ്മുടെ വിശകലനത്തിൽ നിന്ന് അവ ഇല്ലാതാക്കാനും നമുക്ക് ഉപയോഗിക്കാം അതിനാൽ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് തിരികെ പോകാം അവിടെ 'ഫ്രം എൻഎൽടികെ ഡോട്ട് കോർപ്പസ് ഇമ്പോർട്ട് സ്റ്റോപ്പ് വേർഡ്സ്' ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അണ്ടർസ്കോർ സ്റ്റോപ്പ് വേർഡ്സ് സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ് ഇംഗ്ലീഷ് എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അണ്ടർസ്കോർ സ്റ്റോപ്പ് വേർഡ്സ് എന്ന വേരിയബിൾ ഉണ്ട് അതിൽ എൻഎൽടികെ കോർപസിൽ നിന്ന് നമുക്ക് ലഭിച്ച ഇംഗ്ലീഷ് സ്റ്റോപ്പ് വേർഡുകൾ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് അച്ചടിക്കുമ്പോൾ ടോക്കൺ ഇംഗ്ലീഷ് അണ്ടർസ്കോർ സ്റ്റോപ്പ് വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഫ് കണ്ടിഷൻ ഇടാം അതായത് ഇംഗ്ലീഷ് വാക്കുകളുടെ ലിസ്റ്റിൽ ടോക്കൺ ഉണ്ടെങ്കിൽ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല തുടർന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫോർ ലൂപ്പ് ബോഡി യുടെ ബാക്കിയുള്ളവ നടപ്പിലാക്കാതെ ഫോർ ലൂപ്പ് അടുത്ത ആവർത്തനത്തിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് വേഡ് നേരിടുമ്പോഴെല്ലാം അത് പ്രിന്റ് ചെയ്യില്ല അതിനാൽ നമുക്ക് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ the and for എന്നിവ പോലുള്ള ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വാക്കുകൾ ഈ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായതായി നിങ്ങൾ കാണുന്നു ഇത് നമ്മൾവിശകലനം ചെയ്യുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് മികച്ച ബോധം നൽകുന്നു നമ്മുടെ ഔട്ട്പുട്ട് കൂടുതൽ പരിഷ്കരിക്കുന്നതിന് നമുക്ക് ഒരുപക്ഷേ ഈ ചിഹ്നങ്ങളും പ്രത്യേക ചിഹ്നങ്ങളും ഒഴിവാക്കാം നമുക്ക് സ്ക്രിപ്റ്റ് ലേക്ക് മടങ്ങാം ഇംഗ്ലീഷിലെ സ്റ്റോപ്പ് വാക്കുകളിലോ ടോക്കണിന്റെ ദൈർഘ്യത്തിലോ ഉള്ള ടോക്കൺ രണ്ട് പ്രതീകങ്ങളിൽ കുറവാണെങ്കിൽ അതിനർത്ഥം ഒരു പ്രതീകമായ ഏതെങ്കിലും ടോക്കൺ ക്യാരക്ടറ്റർ ഔട്ട്പുട്ട് ദൃശ്യമാകില്ല എന്നാണ് അതിനാൽ ഇത് ഫുൾ സ്റ്റോപ്പ് പരാൻതീസിസ് ഹാഷ് അത്തരത്തിലുള്ള എല്ലാ ടോക്കണുകളും ഇല്ലാതാക്കും ഇപ്പോൾ നമുക്ക് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട്ലെ വ്യത്യാസം നോക്കാം അതിനാൽ എൻ പി ടി ഇ എൽ പേജ് പോസ്റ്റുചെയ്യുന്ന ഉള്ളടക്കത്തിന്റെ മികച്ച പരിഷ്കൃത വിശകലനം ഇത് നമുക്ക് നൽകുന്നു ഈ ഉള്ളടക്കം കൂടുതൽ വിശകലനം ചെയ്യാൻ നമുക്ക് ബൈഗ്രാമുകളും ട്രൈഗ്രാമുകളും എൻഗ്രാമുകളും നോക്കാം അതിനാൽ ഇപ്പോൾ നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന ഒറ്റവാക്കുകൾ മാത്രമാണ് നോക്കിയത് ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് വരുന്ന ജോഡി വാക്കുകൾ ഏതൊക്കെ ആണ് എന്ന് അറിയുന്നത് കൂടുതൽ സഹായകരമാകും അല്ലെങ്കിൽ എത്ര തവണ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ x എണ്ണം പദങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു ഉദാഹരണത്തിന് പേരുകൾ നിങ്ങൾ ഒരു മുഴുവൻ പേര് പരിഗണിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ബരാക് ഒബാമ ബരാക് ഒബാമ അടങ്ങിയ വാചകത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വാക്കുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബരാക്കും ഒബാമയും വെവ്വേറെ ദൃശ്യമാകുന്നതായി നമ്മൾ ശ്രദ്ധിക്കും ബരാക് ഒബാമ എത്ര തവണ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അറിയണമെങ്കിൽ എന്തുചെയ്യും അല്ലെങ്കിൽ എത്ര തവണ ഏതെങ്കിലും ജോഡി വാക്കുകൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു അതിനായി ഞങ്ങൾ എൻഗ്രാമ് എന്ന എൻഎൽടികെ പാക്കേജ് ഉപയോഗിക്കും അതിനാൽ നമുക്ക് കോഡിലേക്ക് തിരികെ പോയി 'ഫ്രം എൻഎൽടികെ ഇമ്പോർട്ട് ഇൻഗ്രാംസ്' എന്ന് പറയാം ഇപ്പോൾ ഓൾ അണ്ടർസ്കോർ ബൈഗ്രാംസ് എന്ന മറ്റൊരു ലിസ്റ്റ് നമുക്ക് സൃഷ്ടിക്കാം അവിടെ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ ബൈഗ്രാമുകളും നമ്മൾ കൂട്ടിച്ചേർക്കും നമുക്ക് ടോക്കണുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ബൈഗ്രാമുകൾ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ബൈഗ്രാംസ് എൻഗ്രാം ടോക്കൺ കോമ 2 എന്ന് പറയുക ഈ വരി ബൈഗ്രാമുകൾ കണക്കാക്കുകയും അവയെ ബൈഗ്രാംസ് എന്ന ലിസ്റ്റിൽ സംഭരിക്കുകയും ചെയ്യും ട്രൈഗ്രാമുകൾ ലഭിക്കുന്നതിന് നമുക്ക് ഈ സംഖ്യ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറ്റണം ഇപ്പോൾ എൻഗ്രാമുകളുടെ പ്രവർത്തനം ബൈഗ്രാമുകൾക്ക് പകരം ട്രൈഗ്രാമുകൾ നൽകും ഈ എൻഗ്രാംസ് ഫംഗ്ഷന്റെ ഔട്ട്പുട്ടും നമുക്ക് ഒരു ലിസ്റ്റാക്കി മാറ്റേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ലിസ്റ്റ് എൻഗ്രാംസ് ടോക്കൺ കോമ 2 എന്ന് പറയുന്നു ഇപ്പോൾ ടോക്കണുകൾക്കായി നമ്മൾ ചെയ്തതുപോലെ എല്ലാ ബൈഗ്രാമുകളുടെയും പട്ടികയിൽ ഈ ബൈഗ്രാമുകളും ചേർക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ പറയുന്നു 'ഓൾ അണ്ടർസ്കോർ ബൈഗ്രാംസ് ഓൾ അണ്ടർസ്കോർ ബൈഗ്രാംസ് പ്ലസ് ബൈഗ്രാംസ് എല്ലാ അണ്ടർസ്കോർ ബൈഗ്രാമുകളുടെയും ആവൃത്തി കണക്കാക്കാൻ ഇപ്പോൾ നമ്മൾ നേരിട്ട് കൌണ്ടർ ഫംഗ്ഷനിലേക്ക് പോകുന്നു ഈ സ്റ്റോപ്പ് വേർഡ്സ് ഉം ടോക്കൺ ലെങ്ത് കണ്ടിഷൻ ഉം നമുക്ക് ഒഴിവാക്കാം അടുത്തതായി ഒരു കൊളോൺ ഓട് കൂടിയ എഛ് ടി പി പി എസ് ആണ് ഈ ഡാറ്റ സെറ്റിൽ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന ബൈഗ്രാം കൂടാതെ 'നോ മോർ' അല്ലെങ്കിൽ ടു നോ എന്നിവയും കാണാം യൂണി ഗ്രാമിന്റെ ഔട്ട്പുട്ടുമായി ഈ ഔട്ട്പുട്ട് താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് കാര്യമായ വ്യത്യാസങ്ങൾ കാണാം 'ടു നോ മോർ' 'വിസിറ്റ് യൂ ആർ എൽ' അല്ലെങ്കിൽ ഫോർ എൻറോൾമെൻറ് അല്ലെങ്കിൽ എൻ പി ടി ഇ എൽ ഓൺലൈൻ അല്ലെങ്കിൽ 'ഹാഷ്ടാഗ് ഗൂഗിൾ ഇന്ത്യ' തുടങ്ങിയ പദങ്ങൾ അടങ്ങിയ ധാരാളം പോസ്റ്റുകൾ എൻ പി ടി ഇ എൽ പോസ്റ്റുചെയ്യുന്നുവെന്ന് ബൈഗ്രാം ഔട്ട്പുട്ട് വ്യക്തമായി പറയുന്നു യൂണിഗ്രാം ഔട്ട്പുട്ടിൽ അത്തരം പദപ്രയോഗങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ സാധാരണയായി കാണപ്പെടുന്ന ട്രൈഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനാൽ നമുക്ക് കോഡിലേക്ക് മടങ്ങാം ഈ 2 ഇനെ 3 കൊണ്ട് മാറ്റിസ്ഥാപിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കോഡ് വീണ്ടും പ്രവർത്തിപ്പിക്കുക സാധാരണയായി കാണപ്പെടുന്ന ട്രൈഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ കൂടുതൽ അറിയാൻ തീയതിയിൽ ക്ലിക്കു ചെയ്തു എൻറോൾ ചെയ്യുക ഇത്തരം ശൈലികൾ എൻപിടിഇഎൽ പോസ്റ്റുകളിൽ പതിവായി ദൃശ്യമാകുന്നു സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിന്റെ മറ്റൊരു രസകരമായ വശം സ്പീച്ച് ടാഗുകളുടെ ഭാഗമോ ആളുകൾ ഓൺലൈനിൽ പോസ്റ്റുചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാചക ഘടനകളോ ആണ് ഇത് പഠിക്കാൻ കഴിയുക എന്നതാണ് ഉദാഹരണത്തിന് ചില സന്ദർഭങ്ങളിൽ നാമങ്ങൾ സർവ്വനാമങ്ങൾ ക്രിയകൾ ക്രിയാപദങ്ങൾ എന്നിവയും അത്തരം എല്ലാ വാക്കുകളും ഒരു വാക്യത്തിൽ സ്വയമേവ തിരിച്ചറിയുന്നത് വളരെ സഹായകരമാണ് അതിനാൽ എൻഎൽടികെ ഉപയോഗിച്ച് അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സ്ക്രിപ്റ്റിലേക്ക് തിരികെ പോയി 'ഫ്രം എൻഎൽടികെ ഇമ്പോർട്ട് പോസ് അണ്ടർസ്കോർ ടാഗ്' എന്ന് പറയുക സ്പീച്ച് ടാഗിങ്ങിന്റെ ഭാഗമാണ് പോസ് അണ്ടർസ്കോർ ടാഗ് ഈ പാക്കേജിന് ഒരു വാചകം ടോക്കണുകളായി പാഴ്സ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഓരോ ടോക്കണും അടയാളപ്പെടുത്താനും കഴിയും അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണമായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു പോസ്റ്റിലുള്ള സ്പീച്ച് ടാഗുകളുടെ ഭാഗം മാത്രം നോക്കാം അതിനാൽ ടോക്കണുകൾ ലഭിച്ച ശേഷം നമ്മൾ ടാഗ് പോസ് അണ്ടർസ്കോർ ടാഗ് ടോക്കൻസ് പ്രിന്റ് ടാഗ് എന്ന് പറയുകയും കോഡിന്റെ ശേഷിക്കുന്ന ഭാഗം നീക്കം ചെയ്യുകയും ചെയ്യുന്നു ടാഗുകൾക്ക് പുറമേ പോസ്റ്റ് എന്താണെന്നും പോസ്റ്റിലെ ഓരോ പദവുമായി ബന്ധപ്പെട്ട ടാഗുകൾ എന്താണെന്നും കൃത്യമായി കാണുന്നതിന് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സന്ദേശം പ്രിന്റ് ചെയ്യാം അതിനാൽ പ്രിന്റ് പോസ്റ്റ് മെസേജ് ഡോട്ട് എൻകോഡ് യുടിഎഫ് 8 എന്ന് നമ്മൾ പറയുന്നു നമുക്ക് ഈ ലൂപ്പ് ഇവിടെ നിര്ത്താം ഔട്ട്പുട്ടിനായി നമുക്ക് ഒരു പോസ്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനാൽ നിങ്ങൾ എൻപിടിഇഎൽ ഓൺലൈൻ കോഴ്സുകളുടെ പുതിയ ബാച്ച് എൻറോൾമെന്റിനായി തുറക്കുന്നു എന്നൊരു സന്ദേശം കാണുന്നു ഇപ്പോൾ സ്പീച്ച് ടാഗറിന്റെ ഭാഗം ഓരോ വാക്കും കണക്കിലെടുക്കുകയും ഈ ഓരോ വാക്കിനും സ്പീച്ച് ടാഗിന്റെ ഒരു ഭാഗം നൽകുകയും ചെയ്യും ഈ ഓരോ ടാഗുകൾക്കുമുള്ള വിശദീകരണം ഈ യൂ ആർ എൽ ൽ ഓൺലൈനിൽ ലഭ്യമാണ് അതിനാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ വാക്ക് ജെ ജെ എന്ന ടാഗ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു തിരയൽ പട്ടികയിലേക്ക് തിരികെ പോയാൽ ജെ ജെ എന്നത് ഒരു നാമവിശേഷണത്തെ സൂചിപ്പിക്കുന്നു അതായത് ന്യൂ എന്നത് ഒരു വിശേഷണമാണ് അതുപോലെ ബാച്ച് എന്നത് ഒരു നാമമാണ് ഓഫ് എന്നത് ഒരു പ്രീപോസിഷൻ ആണ് 10 മണിക്കൂർ ഒരു കാർഡിനൽ സംഖ്യയാണ് ഓപ്പൺ എന്നത് ഒരു നോൺ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രെസന്റ് ക്രിയയും മറ്റും ആണ് ഒരു വാചകത്തിന്റെ ഘടന മനസ്സിലാക്കാൻ സ്പീച്ച് ടാഗുകളുടെ ഒരു ഭാഗം വളരെ സഹായകമാകും ഒരു വാചകം ശരിയായ വ്യാകരണത്തെ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനും അവ ഉപയോഗിക്കാം വാചക ഘടനയും വ്യാകരണവും വിവിധ തരത്തിലുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ വേർതിരിക്കുന്നതിനുള്ള ഒരു സവിശേഷതയായി ഉപയോഗിക്കാം ഈ ട്യൂട്ടോറിയലിൽ അത്രമാത്രം ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് തിരികെ പോയി പരിശോധിക്കാം എൻഎൽടികെ യുടെ കാര്യത്തിൽ വാക്കുകൾ എങ്ങനെ ടോക്കണൈസ് ചെയ്യാമെന്നും വാക്യങ്ങൾ വാക്കുകളുടെ പട്ടികയാക്കി എങ്ങനെ മാറ്റാമെന്നും നമ്മൾ നോക്കി ഈ വാക്കുകളുടെ ആവൃത്തി എങ്ങനെ കണക്കാക്കാമെന്നും നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ സ്റ്റെമ്മിംഗ് നോക്കി അത് വാക്കുകളെ അവയുടെ സ്റ്റെം വാക്കുകളാക്കി മാറ്റുന്നു പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോപ്പ് വേർഡ്സ് ഇനായി എൻഎൽടികെ കോർപസ് നോക്കി ഇൻഗ്രാംസ് പാക്കേജ് ഉപയോഗിച്ച് ബൈഗ്രാമുകളും ട്രൈഗ്രാമുകളും എങ്ങനെ കണക്കുകൂട്ടാം എന്ന് നോക്കുകയും ചെയ്തു അവസാനമായി പൈത്തണിലെ സ്വാഭാവിക ഭാഷാ ടൂൾകിറ്റിന്റെ ഭാഗമായി ലഭ്യമായ സ്പീച്ച് ടാഗിങ്ങിന്റെ ഒരു ഭാഗം നമ്മൾ നോക്കി